നമ്മൾ ഇതുവരെ പഠിച്ചത് കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട് ഉള്ള റക്റ്റിഫയർ സർക്യൂട്ട് ആണ് അതിന്റെ തരംഗ രൂപങ്ങൾ നമ്മൾ കണ്ടു റക്റ്റിഫയർ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട് എങ്ങനെ സിമുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു ഘടകങ്ങൾ രൂപകൽപന ചെയ്യുന്ന ഒരു പ്രധാന പ്രവർത്തനം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഘടകങ്ങൾ മാത്രമേയുള്ളൂ ഒന്ന് ഡയോഡ് റക്റ്റിഫയർ ഡയോഡ് മറ്റൊന്ന് കപ്പാസിറ്റർ അതിനാൽ ഈ രണ്ട് ഘടകങ്ങളും നിങ്ങൾ റേറ്റു ചെയ്യേണ്ടതുണ്ട് അവയ്ക്ക് വൈദ്യുത സമ്മർദ്ദങ്ങളും താപ സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയും ഈ കോഴ്സിൽ കറന്റ് വോൾട്ടേജ് സമ്മർദ്ദങ്ങൾ എന്നിവ പോലുള്ള വൈദ്യുത സമ്മർദ്ദങ്ങളുടെ റേറ്റിംഗിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്നിരുന്നാലും തെർമൽ സ്ട്രെസ് കാൽകുലേഷൻ മറ്റൊരു കോഴ്സായിരിക്കും അതിനാൽ ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം താപ സമ്മർദ്ദങ്ങൾക്കുള്ള ഘടകങ്ങൾ കണക്കാക്കുകയും റേറ്റുചെയ്യുകയും ചെയ്യുന്നത് പരിധിക്ക് പുറത്താണ് നിങ്ങൾ സർക്യൂട്ടുകൾ രൂപകൽപന ചെയ്യുമ്പോഴുള്ള മറ്റൊരു കാര്യം അതിൻറെ കാലാവധിക്കായുള്ള രൂപകൽപ്പന ആണ് തന്നിരിക്കുന്ന mttf mean time to fail രൂപകൽപ്പന ചെയ്യുന്ന സ്കോപ്പിന് പുറത്താണ് എന്നിരുന്നാലും നിങ്ങൾ ഒരു പ്രായോഗിക സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട വശങ്ങളാണിവയെന്ന് ഓർമ്മിക്കുക ഈ കോഴ്സിൽ ഇവിടെയുള്ള വൈദ്യുത സമ്മർദ്ദങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ വൈറ്റ് ബോർഡിലേക്ക് മടങ്ങിയെത്തുന്നു ഇവിടെ തരംഗ രൂപങ്ങൾ ഉണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന തരംഗ രൂപങ്ങളാണ് ഇത് റിപ്പിൾ Vc ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് തരംഗ രൂപമാണ് കപ്പാസിറ്റൻസിൽ ഉടനീളമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് തരംഗ രൂപത്തെ നമ്മൾ Vc എന്ന് വിളിക്കുന്നു Io എന്നത് ഔട്ട്പുട്ട് കറന്റ് ആണ് കറന്റിന്റെ ശരാശരി മൂല്യം നമ്മൾ കാണിച്ചു അവ ഒരു ചെറിയ റിപ്പിൾ ആയിരിക്കും DC യുടെ അതേ ആകൃതി ഉള്ള അത് R കൊണ്ട് ഹരിച്ചിരിക്കും ഈ ഗ്രീൻ തരംഗ രൂപം നമ്മൾ കണ്ടതുപോലെ റക്റ്റിഫയറിന് പുറത്തുള്ള കറന്റിന്റേതാണ് കൂടാതെ നമ്മൾ ചില പാരാമീറ്ററുകൾ കൂടി നിർവചിക്കേണ്ടതുണ്ട് കപ്പാസിറ്റൻസിന്റെയും ഡയോഡ് റേറ്റിംഗുകളുടെയും മൂല്യങ്ങൾക്കായുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നതിന് വേണ്ടിയാണിത് ഇപ്പോൾ ഇത് ഫുൾ സൈനസോയിഡിന്റെ പകുതി തരംഗ രൂപമാണെന്ന് നമുക്കറിയാം അതിനാൽ ഇതിന് pi യുടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കണം ഇത് മുഴുവൻ 2ᴨ ആണെന്നും ഇത് ᴨ ആണെന്നും ഓർക്കുക അതായത് T 2 അല്ലെങ്കിൽ പിരീഡ് 2 ഇനി മറ്റൊരു പാരാമീറ്റർ ചാലക കാലയളവ് ആണ് ഡയോഡ് ചാലകം നടത്തുന്ന കാലയളവാണ് ഇത് നമ്മൾ അതിനെ α എന്ന് നാമകരണം ചെയ്യും തീർച്ചയായും ഈ പോയിന്റ് മുതൽ ഈ ഘട്ടം വരെ ᴨ വീണ്ടും ഓരോ ചക്രം ആവർത്തിക്കുന്നു നിർവചിക്കാനുള്ള മറ്റൊരു വേരിയബിൾ പീക്ക് ടു പീക്ക് റിപ്പിൾ ആണ് അതിനാൽ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പീക്ക് ടു പീക്ക് സ്പ്രിംഗ് ആണ് അതിനാൽ നമുക്ക് ഇതിനെ പീക്ക് ടു പീക്ക് റിപ്പിൾ എന്ന് വിളിക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ റക്റ്റിഫയറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന പീക്ക് കറന്റാണ് Im എന്ന ഈ നിർവചനം നമ്മൾ ഘടകങ്ങൾ റേറ്റുചെയ്യുകയോ രൂപകൽപന ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ വൈദ്യുതധാരയുടെ സ്വഭാവം കൃത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കാണാം കാരണം നമ്മൾ എന്തായാലും ചില സുരക്ഷാ ഘടകങ്ങൾ നൽകേണ്ടതുണ്ട് മാത്രമല്ല നമ്മൾ സാധാരണയായി ഉപകരണങ്ങളെ റേറ്റുചെയ്യുകയും ചെയ്യും നിങ്ങൾ ഈ പച്ച ചതുരാകൃതിയിലുള്ള ബോക്സ് പരിഗണിക്കുക നിലവിലെ തരംഗത്തിന്റെ ആകൃതി അത്തരത്തിലുള്ളതാണെങ്കിൽ ഈ ഫ്ലാറ്റ് ടോപ്പ് ചെയ്ത പച്ച ചതുരാകൃതിയിലുള്ള ബോക്സിന്റെ ഘടകങ്ങൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്താൽ കപ്പാസിറ്റർ ഫിൽട്ടർ റക്റ്റിഫയറിൽ നിന്ന് പുറത്തുവരുമ്പോൾ തീർച്ചയായും അത് ആന്തരിക ആകൃതിയിലുള്ള പൾസ് കൈകാര്യം ചെയ്യും അതിനാൽ സാധാരണയായി ഡിസൈൻ പ്രാക്ടീസിൽ നമ്മൾ ഇവിടെ എഞ്ചിനീയറിംഗ് വിധി ഉപയോഗിക്കുന്നു കൂടാതെ ഉപകരണങ്ങൾ റേറ്റുചെയ്യുന്നതിന് ഈ പൂർണ്ണ ഫ്ലാറ്റ് ടോപ്പ് ചതുരാകൃതിയിലുള്ള പൾസ് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുമെന്ന് പറയുന്നു ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ അത് തീർച്ചയായും ഈ കറന്റിന്റെ ആകൃതി കൈകാര്യം ചെയ്യും അതിനാൽ അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വിശകലനത്തിനും വേണ്ടിയല്ല ഡിസൈൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്യാൻ ഞങ്ങൾ അനുമാനിക്കുന്ന നിലവിലെ തരംഗ രൂപമാണിത് ഇപ്പോൾ Vo എന്ന് വിളിക്കുന്ന ഒരു വേരിയബിൾ കൂടി നമ്മൾ നിർവ്വചിക്കും Vo എന്നത് കപ്പാസിറ്റൻസ് നോഡിൽ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് Vc യുടെ ശരാശരി മൂല്യമാണ് അതിനാൽ ഇതാണ് പീക്ക് വാല്യൂ ഇത് റിപ്പിളിന്റെ മീൻ വാല്യൂ ഇതു രണ്ടും പ്ലസ് ചെയ്തു രണ്ടു കൊണ്ട് ഹരിച്ചാൽ ശരാശരി മൂല്യം Vo ലഭിക്കും അതിനാൽ ഇത് വൈദ്യുതധാരയുടെ ശരാശരി മൂല്യമായിരിക്കും വോൾട്ടേജിന്റെ ശരാശരി മൂല്യം ഇവിടെ നൽകിയിരിക്കുന്നു കപ്പാസിറ്റർ Vm1 എടുക്കുന്ന പീക്ക് മൂല്യവും സ്ഥിരമായ അവസ്ഥയിൽ Vm2 ലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ മൂല്യവും ആയ രണ്ട് വേരിയബിളുകൾ കൂടി അതിനാൽ ഈ വേരിയബിളുകളുടെ നിർവചനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ കപ്പാസിറ്റൻസിന്റെ മൂല്യം എന്തായിരിക്കുമെന്നും ഡയോഡുകളിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യം എന്തായിരിക്കുമെന്നും കണക്കാക്കാം ഇപ്പോൾ നമുക്ക് ഇക്വാഷൻ എഴുതാൻ റൈറ്റിങ് ബോർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനാൽ ഞാൻ റൈറ്റിങ് ബോർഡിൽ പോയി സമവാക്യങ്ങൾ എഴുതാൻ തുടങ്ങും നിങ്ങൾക്ക് എന്നെ പിന്തുടരാൻ കഴിയും അതിനാൽ എല്ലാ പാരാമീറ്ററുകളുടെയും പേരുള്ള അതേ തരംഗരൂപം എന്റെ പക്കലുണ്ട് ഡിസൈൻ സമവാക്യങ്ങൾ എഴുതാൻ നമ്മൾ ഇത് ഉപയോഗിക്കും ഇനി ആദ്യം നമുക്ക് കപ്പാസിറ്റൻസിന്റെ മൂല്യം കണക്കാക്കാം ഡിസൈൻ ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്താണെന്ന് എഴുതുക സവിശേഷതകൾ അതിനാൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്പെസിഫിക്കേഷനുകൾ താഴെ പറയുന്നവയാണ് സ്പെസിഫിക്കേഷനുകൾ Vo യുടെ മൂല്യം എന്താണെന്നാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് റിപ്പിൾ സ്പെക് ഇത് നിങ്ങൾക്ക് നൽകും നമ്മൾ അന്ന് അടയാളപ്പെടുത്തിയത് പോലെ അത് നിങ്ങൾക്ക് ടു പീക്ക് റിപ്പിൾ വേരിയേഷൻ ഡെൽറ്റ Vr ആയി നൽകും മറ്റെന്താണ് നൽകുന്നത് നിങ്ങൾക്ക് പവർ Po ഔട്ട്പുട്ട് പവർ ഉണ്ടാകും നമുക്ക് ഇൻപുട്ട് സ്പെസിഫിക്കേഷനും ഉണ്ട് ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് 230 വോൾട്ട് RMS പോലെയുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതായത് 230 റൂട്ട് 2 പീക്ക് ഇത് നിങ്ങളുടെ V m ആയിരിക്കും എന്നാൽ അത് മാത്രമല്ല നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് മൈനസിൽ നിന്ന് 180 ഡിഗ്രി 180 വോൾട്ട് മുതൽ 270 വോൾട്ട് വരെ മാറും അതിനാൽ 20 ശതമാനം 30 ശതമാനം ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഒരു യഥാർത്ഥ വോൾട്ടേജിൽ നിങ്ങൾ കണ്ടെത്തും അതിനാൽ നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് ടോളറൻസും വ്യക്തമാക്കണം അതിനാൽ ഇത് സാധാരണയായി നിങ്ങളുടെ നാമമാത്ര മൂല്യത്തിന്റെ 10 ശതമാനം അല്ലെങ്കിൽ 15 ശതമാനം പോലെയാണ് നൽകിയിരിക്കുന്നത് അതിനാൽ ഇത് വ്യത്യാസപ്പെടും 230 വോൾട്ട് RMS ന്റെ 10 മുതൽ 230 വോൾട്ട് RMS ന്റെ 10 വരെ അതിനർത്ഥം 230 വോൾട്ട് 23 വോൾട്ട് ടോളറൻസ് എന്നാണ് അതിനാൽ ഈ ടോളറൻസ് നൽകേണ്ടതുണ്ട് അതിനാൽ വ്യത്യസ്തപെടുമ്പോൾ നമ്മൾ അതിനെ ശതമാനം എന്ന് വിളിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് സപ്ലൈ ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം അത് നമ്മുടെ രാജ്യത്ത് എല്ലായ്പ്പോഴും 50 ഹെർട്സ് ആണെന്ന് അറിയാം അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അധികം വിഷമിക്കേണ്ടതില്ല അതിനാൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്പെസിഫിക്കേഷനുകൾ ഇവയാണ് ഈ സ്പെസിഫിക്കേഷനുകൾ ഉപയോഗിച്ച് നമ്മുടെ ആദ്യ ജോലിയായ കപ്പാസിറ്റൻസ് c യുടെ മൂല്യത്തിൽ എത്തിയിരിക്കുന്നു നമുക്ക് ഈ ഘട്ടത്തിൽ നിന്ന് ആരംഭിക്കാം ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ കപ്പാസിറ്ററിന് പകുതി CVm1 സ്ക്വയർ ഊർജ്ജമുണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഡയോഡുകൾ ഓഫാണ് അതുപോലെ ഇവിടെ നിന്ന് കപ്പാസിറ്റൻസ് ലോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ജോലി മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റെവിടെയുമില്ലാത്ത ലോഡിലേക്ക് അത് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു അത് ഊർജ്ജ നിലയിലെത്തി ½ CVm22 താഴ്ന്ന ഊർജ്ജ നിലയിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ നഷ്ടപ്പെട്ട ഈ ഊർജ്ജത്തിന് എന്ത് സംഭവിച്ചു അത് ലോഡിലേക്ക് പോയി അതിനാൽ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ആരംഭ പോയിന്റ് അതിനാൽ ഞാൻ മാർക്ക് ചെയ്യട്ടെ ഇവിടെ ഇത് ½ CVm12 ആണ് ഇവിടെ ഇത് ½ CVm22 ആണ് എന്താണ് വ്യത്യാസം അതിനാൽ ½ CVm12 ½ CVm22 ലോഡിലേക്ക് പോകുന്നു ഇത് യഥാർത്ഥത്തിൽ മുഴുവൻ ᴨ കാലയളവിലല്ല ഇത് ᴨ α കാലയളവിലേക്കാണ് അതിനാൽ കുറച്ച് സമയത്തേക്ക് ᴨ α കപ്പാസിറ്ററുകൾ ലോഡിലേക്ക് മാത്രം ഡിസ്ചാർജ് ചെയ്യുന്നു അതിനാൽ ᴨ αᴨ എന്ന ഡ്യൂട്ടി അനുപാതത്തിൽ Po അളവ് പവർ ഇടുന്നു അതിനാൽ ആ സമയത്ത് VoIo T2 എന്ന സമയത്തേക്ക് അത്രയും അളവ് പവർ ഇടുന്നു അതിനാൽ ഈ സമവാക്യം നോക്കാം ᴨ αᴨ വെയ്റ്റഡ് പീരീഡ് T2 പവർ ഔട്ട്പുട്ട് Po അതിനാൽ ഇതാണ് യഥാർത്ഥത്തിൽ ഊർജ്ജം വാട്ട്സ്ടൈം വാട്ട്സ് സെക്കൻഡ്സ് അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഊർജ്ജത്തിന്റെ അളവ് ½ CVm12 ½ CVm22 ലോഡിൽ ഇടുന്നു അതിനാൽ നമുക്ക് ഈ ½ ലളിതമാക്കാം അതായത് ᴨ αᴨ Po 2f f എന്നത് ഇപ്പോൾ ഒരു ആവൃത്തിയാണ് ഇത് C Vm1 Vm22 ആയി വിഭജിക്കാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ab ൽ നിന്നുള്ള a2 ആണ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീൻ മുകളിലേക്ക് നീക്കട്ടെ ഇത് ശരാശരി മൂല്യം Vo അല്ലാതെ ഒന്നുമല്ല ഇത് ഡെൽറ്റ Vr അതിനാൽ നമുക്ക് C ᴨ αᴨ Po 2 f Vo∆Vr ഡിനോമിനേറ്ററിൽ വരുന്നു പക്ഷേ Po തന്നെ VoIo ആണ് അതിനാൽ Vo റദ്ദാക്കും അതിനാൽ നിങ്ങൾക്ക് C യുടെ മൂല്യം ᴨ αᴨ Io 2f∆Vr എന്ന് എഴുതാം അതിനാൽ ഇത് ലഭിക്കുന്നതിന് നിങ്ങൾ ഇടേണ്ട കപ്പാസിറ്ററിന്റെ മൂല്യമാണിത് പ്രത്യേക തരംഗവും ഈ പ്രത്യേക ലോഡ് കറന്റും എന്നിരുന്നാലും Io യുടെ പരമാവധി മൂല്യത്തിനായി നിങ്ങൾ കണക്കാക്കേണ്ട ചിത്രത്തിൽ മറ്റ് ചില വ്യതിയാനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ Io യുടെ പരമാവധി മൂല്യം കണക്കാക്കിയാൽ അത് കൈകാര്യം ചെയ്യാൻ C യുടെ മൂല്യം മതിയാകും ഏറ്റവും കുറഞ്ഞ റിപ്പിളിനും നിങ്ങൾ കണക്കാക്കണം അതിനാൽ ഏറ്റവും കുറഞ്ഞ റിപ്പിളിന് നമുക്ക് C യുടെ ഉയർന്ന മൂല്യം ലഭിക്കുന്നു അതിനാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ Io യുടെ മൂല്യം അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ റിപ്പിളിനുള്ള ഏറ്റവും മോശം അവസ്ഥയിൽ C യുടെ മൂല്യം നന്നായി നിലനിൽക്കും നിങ്ങൾ ഒരു യഥാർത്ഥ സർക്യൂട്ടിൽ C യുടെ മൂല്യം ഇടുമ്പോൾ നിങ്ങൾ കണക്കിലെടുക്കേണ്ട മറ്റൊരു പ്രധാന മാനദണ്ഡം ഒരു അലുമിനിയം ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ വാങ്ങുമ്പോഴാണ് അവക്ക് വളരെ വലിയ ടോളറൻസ് ഉണ്ടാകും മൈനസ് നാൽപ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ടോളറൻസ് ഉണ്ടാകും അതിനാൽ സാധാരണയായി നിങ്ങൾ കണക്കാക്കുന്നതും പിന്നീട് നിങ്ങൾ വാങ്ങുന്നതും യഥാർത്ഥത്തിൽ അളക്കുന്നതും വളരെ വലുതും പ്രധാനപ്പെട്ടതുമായ വ്യതിയാനം ഉണ്ടാക്കാം അതിനാൽ സാധാരണയായി പ്രായോഗികമായി ചെയ്യുന്നത് നിങ്ങൾ c കണക്കാക്കിയാൽ നിങ്ങൾക്ക് 15μF അല്ലെങ്കിൽ 10 μF ലഭിക്കും അതിന്റെ മൂന്നിരട്ടി മൂല്യം നിങ്ങൾ എടുക്കും 30μF നിങ്ങൾക്ക് ആ മൂല്യം നൽകാം അതിനാൽ നിങ്ങൾ വാങ്ങിയ കപ്പാസിറ്റർ പോലും മൈനസ് നാൽപ്പത് ശതമാനമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിന് കഴിയും അതിനാൽ നിങ്ങൾ മൂല്യങ്ങൾ കണക്കാക്കുന്നത് ഇങ്ങനെയാണ് കപ്പാസിറ്റൻസിലൂടെ കടന്നുപോകുന്ന RMS കറന്റ് നമുക്ക് ഇപ്പോൾ കണക്കാക്കാം കാരണം അത് ഒരു പരാമീറ്റർ ആണ് നമ്മൾ കണക്കാക്കേണ്ട പരാമീറ്റർ കാരണം അത് കപ്പാസിറ്ററിന്റെ തപീകരണത്തെ നേരിട്ട് ബാധിക്കും അതിനാൽ അത് ചെയ്യാൻ ഞാൻ വീണ്ടും കറന്റ് ഒഴുകുന്ന ഈ ചാലക കാലയളവിലേക്ക് മടങ്ങട്ടെ ഈ α സമയം ഡയോഡുകൾ നടത്തുന്ന ചാലക കാലയളവാണ് α യുടെ ഈ മൂല്യം നമുക്ക് അറിയാമോ പീക്ക് Vm1 ന്റെ ഈ മൂല്യം ഇവിടെ നിന്നാണ് അതിനാൽ Vm1cosα Vm2 ആകും അതിനാൽ നമുക്ക് Vm1 അറിയാം Vm2 റിപ്പ്ൾ അറിയാം അതിനാൽ നമുക്ക് α അറിയാൻ കഴിയണം അപ്പോൾ നമുക്ക് അത് എങ്ങനെ ലഭിക്കും Vm2 Vm1 cosα ന് തുല്യമാണ് α എന്നത് cos 1 Vm2Vm1 തുല്യമാണ് Vm1 അറിയപ്പെടുന്നത് Vrms √2 ആണ് Vm2 എന്നത് Vm1 ∆Vr എന്ന സ്പെക്കിൽ നിന്നാണ് അറിയുന്നത് ഇതെല്ലാം ഇൻപുട്ട് സ്പെക്കിൽ നിന്നാണ് വരുന്നത് α യുടെ മൂല്യം നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ കപ്പാസിറ്റൻസിലൂടെ ഒഴുകുന്ന കറന്റ് നിങ്ങൾക്ക് കണക്കാക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ചതുരാകൃതിയിലുള്ള അപ്പ്രോക്സിമഷൻ ഉണ്ടാക്കാൻ പോകുന്നു കപ്പാസിറ്റൻസിലൂടെയുള്ള കറന്റിന്റെ ശരാശരി മൂല്യം സ്ഥിരമായ അവസ്ഥയിൽ എല്ലായ്പ്പോഴും പൂജ്യമാണെന്ന വ്യവസ്ഥ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഇതാണ് കപ്പാസിറ്ററിന്റെ ചാർജ് അപ്പ് ഏരിയ ഡയോഡുകൾ ചാലകം നടത്തുന്നു ഡയോഡുകൾ ചാലകം നടത്തുന്നില്ല കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു ഏരിയ ഇതാണ് അതിനാൽ ഇത് Io ആണെന്നും അതിനാൽ ഇത് Ioπ απ T2 ആയിരിക്കുമെന്നും ഞങ്ങൾക്കറിയാം ഈ മേഖല തീർച്ചയായും Im -Io απ T 2 ആണ് അതിനാൽ ഈ T 2 ചേർത്തു അതിനാൽ ഇത് ചാർജാണ് അതിനാൽ കറന്റിന്റെ rms മൂല്യം കണ്ടെത്താൻ നിങ്ങൾ T2 നീക്കം ചെയ്യുക അതിനാൽ απ Io2 π -α π എന്ന ഡ്യൂട്ടി സൈക്കിളുള്ള പോസിറ്റീവ് ഏരിയ Im -Io2 ന്റെ റൂട്ട് മീൻ സ്ക്വയർ Icrms ആണ് അതിനാൽ മുഴുവൻ കാര്യവും റൂട്ടിന് കീഴിലാണ് അതിനാൽ കപ്പാസിറ്ററിന്റെ ESR മൂല്യത്തിലേക്ക് ഈ r m s കറന്റ് സ്ക്വയർ കപ്പാസിറ്ററിനൊപ്പം ഹീറ്റിംഗ് എഫ്ഫക്റ്റ് നൽകുന്ന കപ്പാസിറ്റൻസിലൂടെ കടന്നുപോകുന്ന വൈദ്യുതധാരയുടെ r m s മൂല്യമായിരിക്കും ഇത് അതിനാൽ നിങ്ങൾ തെർമൽ മാനേജ്മെന്റും തെർമൽ ഡിസൈനും ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകും അതിനാൽ ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പാസിറ്റൻസ് വ്യക്തമാക്കാൻ കഴിയും അതിനാൽ കപ്പാസിറ്റൻസ് ഇനിപ്പറയുന്ന രീതിയിൽ വ്യക്തമാക്കാം നമ്മൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ Io 2f∆Vr എന്ന സമവാക്യത്തിലൂടെ C മൂല്യം നൽകിയത് നമുക്കറിയാം അതിനാൽ ഈ Io നിങ്ങൾ പരമാവധി സാധ്യതയുള്ള Io എടുക്കണം അതായത് Io max ∆Vrmin ന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യവും ഈ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് വ്യതിയാനം ലഭിക്കുന്ന C യുടെ മൂല്യം എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യതിയാനം പരാമർശിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് പുതിയ മൂല്യത്തിൽ നിന്ന് പരമാവധി മൂല്യത്തിലേക്ക് വ്യത്യാസപ്പെടുന്നു എന്നതാണ് അതിനാൽ ഏറ്റവും മോശം അവസ്ഥ എന്താണെങ്കിലും ഡെൽറ്റ Vrmin കണ്ടെത്തി ഇത് പ്രയോഗിക്കുക ഇപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് റേറ്റിംഗ് കപ്പാസിറ്ററിന്റെ പരമാവധി വോൾട്ടേജ് V rms √2 ആയിരിക്കും ഇത് ഇപ്പോൾ Vm ആണ് Vm തന്നെ മുകളിലെ അറ്റത്തേക്ക് നീങ്ങിയേക്കാം കാരണം ഞാൻ പറഞ്ഞ ടോളറൻസ് 1 പെർസെന്റ് ടോളറൻസ് വാല്യൂ അത് ഏതായാലും 10 അല്ലെങ്കിൽ 20 100 അതിനാൽ തീർച്ചയായും കപ്പാസിറ്റർ കാണുന്ന പരമാവധി മൂല്യം ഇതായിരിക്കും ഇപ്പോൾ കണ്ടെത്തിയതുപോലെ നിങ്ങൾക്ക് Ic rms റേറ്റിംഗ് ഉണ്ട് അതിനാൽ 2 απ Io2 π απ അതിനാൽ ഇത് RMS മൂല്യമായിരിക്കും അതിനാൽ ഇനി നമുക്ക് ടൈപ്പ് പറയാം ഇലക്ട്രോലൈറ്റ് ടൈപ്പ് അത് അലുമിനിയം ഇലക്ട്രോലൈറ്റ് ആയിരിക്കും അതിനാൽ ഇത് കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക്കൽ ഡിസൈൻ പൂർത്തിയാക്കും ഇനിയുള്ളത് ഡയോഡ് ആണ് ഡയോഡുകൾ ഓഫായിരിക്കുമ്പോൾ ഡയോഡ് കാണുകയാണെങ്കിൽ അവ പരമാവധി വോൾട്ടേജ് കാണും പീക്ക് വിപരീത വോൾട്ടേജ് Vrms √2 ആയിരിക്കും അതിനാൽ ഇത് 230 ആണെങ്കിൽ അത് 230 √2 325 വോൾട്ട് ആയിരിക്കും അതിനായി നിങ്ങൾ അധികമായി നൽകുന്നു ആ പ്രത്യേക സ്ഥലത്തിനായുള്ള ടോളറൻസ് സ്വിംഗ് ഇതാണ് പരമാവധി അതിനാൽ നിങ്ങൾ ഒരു ഡയോഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ കണക്കാക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന തോതിലുള്ള വിപരീത വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള ഒരു ഡയോഡ് നിങ്ങൾ തിരഞ്ഞെടുക്കണം ഡയോഡിനായി നിങ്ങൾ കണക്കാക്കേണ്ട മറ്റ് രണ്ട് മൂല്യങ്ങളുണ്ട് ഒന്ന് ആവറേജ് Id ആവറേജ് പിന്നെ Id മാക്സിമം അതിനാൽ Id മാക്സിമം കറന്റിന് തുല്യമാണ് റക്റ്റിഫയറിലൂടെ ഒഴുകുന്ന പരമാവധി കറന്റ് അതിനാൽ Id മാക്സിമം ഇതിനു സമമാണ് Id മാക്സിമം Im ഇതാണ് ഓരോ ഡയോഡിലൂടെയും ആവറേജ് വാല്യൂ ഇതര സൈക്കിളുകളിലൂടെ ഒഴുകുന്നത് നിങ്ങൾ കാണും അതിനാൽ D1 D4 ഇതിലൂടെ ഒഴുകും D1ഉം D4 ഉം വീണ്ടും അടുത്ത മഞ്ഞ ഹാഫ് സൈക്കിളിലൂടെ ഒഴുകും D2 D3 ഇവിടെ ഒഴുകുന്നു അടുത്ത നീല അർദ്ധചക്രത്തിൽ D2 ഉം D3 ഉം വീണ്ടും ഒഴുകും അതിനാൽ ഇതിന്റെ ശരാശരി I m ഡ്യൂട്ടി സൈക്കിൾ α2π ആയിരിക്കും കാരണം ഇത് ഓരോ 2π യിലും ആവർത്തിക്കുന്നു അതിനാൽ ഡയോഡിനായി നമുക്ക് ഇനിപ്പറയുന്ന രീതിയിൽ ശരാശരി കണ്ടെത്താനാകും Im α2π ഇത് ഡയോഡിലൂടെ ഒഴുകുന്ന ശരാശരി വൈദ്യുതധാരയായിരിക്കും നിങ്ങൾ ഡയോഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഇതിലും വലിയൊരു റേറ്റിംഗ് ഉണ്ടായിരിക്കണം ഏകദേശ കണക്ക് അനുസരിച്ച് ആൽഫയ്ക്ക് ചുറ്റും വളരെ ചെറിയ കാലയളവിൽ ഒഴുകുന്ന കറന്റിനേക്കാളും Im തന്നെയാണ് പീക്ക് കറന്റ് റേറ്റിംഗ് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡയോഡ് റേറ്റിംഗ് ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് വൈദ്യുതപരമായി രൂപകൽപ്പന ചെയ്ത കപ്പാസിറ്ററും ഉണ്ട് ഈ മൂല്യങ്ങൾ നിങ്ങൾക്ക് ഈ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗനിർദേശ മൂല്യങ്ങളായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഈ സമവാക്യങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ഫയലിൽ ഉൾപ്പെടുത്താം എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ആവർത്തന രൂപകൽപന ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ നിങ്ങൾ ഈ സവിശേഷതകൾ മാറ്റിക്കൊണ്ടിരിക്കും തുടർന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നത് തുടരും ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഘടകം ലഭിച്ചേക്കില്ല തുടർന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനാൽ അവ ഒക്ടേവ് അല്ലെങ്കിൽ മാറ്റ്ലാബ് പോലെയുള്ള ഒരു സ്ക്രിപ്റ്റ് ഫയലിൽ ഇടുന്നത് നല്ലതാണ് അതിനാൽ ഞങ്ങൾ ഒരു ഒക്ടേവ് സ്ക്രിപ്റ്റ് ഫയൽ ഉപയോഗിക്കുകയും ഡിസൈൻ മൂല്യങ്ങൾ എന്താണെന്ന് കാണുന്നതിന് സ്ക്രിപ്റ്റ് ഫയൽ ആവർത്തിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യും അതിനാൽ അവസാനമായി ഈ മൂല്യങ്ങൾ വീണ്ടും വീണ്ടും കണക്കാക്കേണ്ടതില്ല അത് വിരസതയിലേക്ക് നയിക്കും അതിനാൽ അവ എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഫയലിൽ ഇടാമെന്നും അങ്ങനെ ഡിസൈൻ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാമെന്നും ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഘടകങ്ങളുടെ മൂല്യങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനായി ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനാൽ ഇതാണ് നമ്മുടെ ഫോൾഡർ ഡയലോഗ് നമ്മൾ DC Dc ഫോൾഡറിലേക്ക് പോകും ഞാൻ ഇതിനകം ഇവിടെ ഒരു സാമ്പിൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതിനാൽ ഇതാണ് m ഫയൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കും അതേ സമയം ഞാൻ അത് ഒരു വശത്ത് സൂക്ഷിക്കും ഞാൻ ഒക്റ്റേവിൽ ഇടും ഇത് ഒരു വശത്ത് ഇടം വർദ്ധിപ്പിക്കും അതിനാൽ എനിക്ക് വർക്ക് സ്പേസ് ഉണ്ട് അതിനാൽ ഇത് ഇതുപോലെയാണ് ഇവിടെ അതേ ഫോൾഡറിലേക്ക് പോകട്ടെ ഞാൻ ഇതിനകം എഴുതിയിട്ടുണ്ട് അതിനാൽ നമ്മൾ കൂടുതൽ സമയം പാഴാക്കരുത് നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ 3 ഭാഗങ്ങളായി തരംതിരിക്കേണ്ടതുണ്ട് ഈ വാക്യഘടന നിങ്ങൾ മാറ്റ് ലാബിൽ ചെയ്യുന്നതുമായി വളരെ സാമ്യമുള്ളതാണ് ഇതിന് ഇതിനകം ഒരു വിപുലീകരണ ഡോട്ട് എം ഉണ്ട് സർക്യൂട്ടിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ ആദ്യം എഴുതിയിട്ടുണ്ട് തുടർന്ന് നിങ്ങൾ കണക്കുകൂട്ടലുകളുമായി മുന്നോട്ട് പോകുക ഇവയെല്ലാം കണക്കുകൂട്ടലുകളാണ് തുടർന്ന് ഡിസ്പ്ലേയിലൂടെ നിങ്ങൾ കണക്കുകൂട്ടൽ പൂർത്തിയാക്കിയതിന് ശേഷം ദിവസാവസാനം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അതിനാൽ ഇത് ഈ 3 ഭാഗങ്ങളായി സൂക്ഷിക്കുക അതിനാൽ സ്പെസിഫിക്കേഷനായി ആവർത്തനങ്ങൾ ചെയ്യുന്നതിനായി നിങ്ങൾ മാറ്റുന്നത് ഇതാണ് ഈ കണക്കുകൂട്ടലുകളെല്ലാം ഈ വേരിയബിളുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റുകളുടെ പിന്നീടുള്ള തുകകൾ എനിക്ക് ചെയ്യാൻ കഴിയാത്തതിനാൽ ഞാൻ ഇവിടെ ഉചിതമായ വേരിയബിളുകൾ ഉപയോഗിച്ചു അതിനാൽ Vrms എന്നത് ഇൻപുട്ട് വോൾട്ടേജാണ് ഞാൻ ഉണ്ടാക്കിയ ടോളറൻസ് ഇരുപത് ശതമാനം ടോളറൻസ് ആണ് Vr എന്നത് പവർ Po യിലെ ഔട്ട്പുട്ട് മെയിൻ സപ്ലൈ ഫ്രീക്വൻസിയുടെ പീക്ക് റിപ്പിൾ വോൾട്ടേജാണ് കൂടാതെ കണക്കുകൂട്ടലുകളിലും നിങ്ങൾ ആദ്യം ഏറ്റവും കുറഞ്ഞ മൂല്യവും കൂടിയതും എന്താണെന്ന് കണക്കാക്കാൻ ശ്രമിക്കുക ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന പീക്സ്ന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യവും പീക്സ്ന്റെ പരമാവധി മൂല്യവും നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ സമവാക്യങ്ങളിലൂടെ കടന്നുപോകുക എന്നാൽ ഞാൻ ഇപ്പോൾ പ്രശ്ന മൂല്യങ്ങളും ഉപയോഗിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ആൽഫക്ക് 2 മൂല്യങ്ങൾ ലഭിക്കും ആൽഫ മിനിമം ആൽഫ മാക്സ് സിയുടെ മൂല്യം കണക്കാക്കുന്നതിന് ആൽഫയുടെ പരമാവധി മൂല്യം തിരഞ്ഞെടുക്കുക തുടർന്ന് ഇവിടെ നിങ്ങൾ വോൾട്ടേജ് കണക്കാക്കണം അതിൽ ഔട്ട്പുട്ട് കറന്റ് മാക്സ് ഔട്ട്പുട്ട് കറന്റ് കപ്പാസിറ്റർ RMS മൂല്യം കാണും ഡയോഡ് തിരഞ്ഞെടുക്കൽ പീക്ക് വിപരീത വോൾട്ടേജ് മൂല്യം ഐഡി ശരാശരി RMS മൂല്യം എന്നിവയാണ് ഒടുവിൽ ഡിസ്പ്ലേ ഞാൻ fprintf സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു അതിനാൽ അത് ഡിസ്പ്ലേ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ ഇടുന്നു നിങ്ങൾക്ക് ഒരു ഫയലിൽ ഉൾപ്പെടുത്താം ഇത് നിങ്ങളുടെ C വാക്യഘടന സ്പെസിഫിക്കേഷനുകൾ പോലെയാണ് ഔട്ട്പുട്ട് പവർ കപ്പാസിറ്റർ തിരഞ്ഞെടുക്കൽ മൂല്യങ്ങളും ഡയോഡുകളും അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാരാമീറ്ററുകൾ ഇവയാണ് അതിനാൽ ഇത് ഞാൻ ഗൂഗിൾ ഡ്രൈവിലേക്കും അപ്ലോഡ് ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഇത് നോക്കാം തുടർന്ന് ഈ ലൈനുകളിൽ നിങ്ങളുടെ ഡിസൈൻ സ്ക്രിപ്റ്റ് ഫയലുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുക അതിനാൽ ഞങ്ങൾ ഒക്ടേവ് വർക്ക്സ്പെയ്സിലേക്ക് പോകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രിപ്റ്റ് ഫയൽ പ്രവർത്തിപ്പിക്കുക എന്നതാണ് അതിനാൽ പേര് റെക്റ്റ് അണ്ടർസ്കോർ ഫിൽട്ടർ ഡോട്ട് എം ആണെന്ന് നമുക്കറിയാം അത് റക്റ്റ് അണ്ടർസ്കോർ ഫിൽട്ടർ എഴുതുക t ഡോട്ട് എം എക്സ്റ്റൻഷൻ നൽകരുത് അത് പ്രവർത്തിപ്പിക്കുക അതിനാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണും നിങ്ങളുടെ മുമ്പിൽ സ്ക്രീൻ മായ്ക്കുന്നത് നല്ലതായിരിക്കാം അതിനാൽ അത് സേവ് ചെയ്യുക അതിനാൽ ഒരിക്കൽ കൂടി ആ എക്സിക്യൂട്ട് ഞാൻ ചെയ്യട്ടെ അതിനാൽ അതെ സ്പെസിഫിക്കേഷനുകൾ ഇതാണ് ഔട്ട്പുട്ട് പവർ എല്ലാ കാര്യങ്ങളും കപ്പാസിറ്ററുകൾ തിരഞ്ഞെടുക്കൽ മൂല്യങ്ങളും 110 114 95 മൈക്രോ ഫാരഡുകൾ അതിനാൽ നിങ്ങൾ ഡയോഡ് സെലക്ഷൻ ഈ ലെവലിൽ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ 1e6 കൊണ്ട് ഗുണിക്കുന്നു അത് വളരെ നീണ്ട 14 പോയിന്റ് സംഖ്യ വിടവ് ഉള്ളതിനേക്കാൾ മൈക്രോ ഫാരഡുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ പവർ മൂല്യം 1000 വാട്ട് ആക്കി മാറ്റുകയും ഈ സ്ക്രിപ്റ്റ് വീണ്ടും പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ആവർത്തനങ്ങൾ ചെയ്യുന്നത് തുടരാം അതിനാൽ കാര്യങ്ങൾ മാറുന്നത് നിങ്ങൾ കാണും നിങ്ങൾക്ക് അത് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം തുടർന്ന് നിങ്ങൾക്ക് കഴിയുന്ന മൂല്യങ്ങൾ ആവശ്യമുള്ളതിനാൽ മൂല്യങ്ങളിലെ സിമുലേഷൻ പ്ലഗിലേക്ക് മടങ്ങുക അതിനാൽ ഇത് റക്റ്റിഫയർ സർക്യൂട്ട് റക്റ്റിഫയർ ഫിൽട്ടർ സർക്യൂട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം ഉൾക്കാഴ്ച നൽകും അതിനാൽ റക്റ്റിഫയർ ഫിൽട്ടർ സർക്യൂട്ടിലെ രണ്ട് പ്രധാന ഘടകങ്ങൾ അതായത് ഡയോഡും കപ്പാസിറ്ററും വിശകലനം ചെയ്യുകയും രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്